നോക്കൂ ഈ പ്രോട്ടോക്കോളുകളിലേതെങ്കിലും വിശദാംശങ്ങളിലേക്ക് കടക്കുന്നതിന് മുമ്പ് എന്തുകൊണ്ടാണ് ഞങ്ങൾക്ക് ഈ പ്രോട്ടോക്കോളുകൾ വേണ്ടത് എന്ന ആശയം നിങ്ങൾ മനസ്സിലാക്കണം ഇന്റർനെറ്റ് ലോകത്ത് ധാരാളം പ്രോട്ടോക്കോളുകൾ ഉണ്ട് നിങ്ങൾക്ക് എച്ച്ടിടിപി ഉണ്ട് അത് വളരെ പ്രചാരമുള്ള പ്രോട്ടോക്കോൾ ആണ് നാമെല്ലാം എച്ച്ടിടിപി ക്ലയന്റുകളായ ബ്രൌസറുകൾ ഉപയോഗിക്കുന്നു ഫയലുകൾ നീക്കുന്നതിന് പ്രോട്ടോക്കോൾ ഇതിനകം നിലവിലുണ്ട് വലിയ ഫയൽ ചലനങ്ങൾക്കായി ബൾക്ക് ഫയൽ ട്രാൻസ്ഫർ നിങ്ങൾക്ക് എഫ്ടിപി ഉണ്ട് എഫ്ടിപിയുടെ സുരക്ഷിത പതിപ്പ് എസ്എഫ്ടിപി ആണ് അതിനാൽ അതുപോലെയുള്ള നിരവധി പ്രോട്ടോക്കോളുകൾ ഉണ്ട് എന്തുകൊണ്ട് ഒന്ന് കൂടി എന്തുകൊണ്ട് നിലവിലുള്ളവ തന്നെ ഉപയോഗിച്ച് കൂടാ എന്തിനാണ് കൂടുതൽ പ്രോട്ടോക്കോളുകൾ സൃഷ്ടിക്കുന്നത് അത് നിങ്ങളെ അസ്വസ്ഥമാക്കുന്ന ഒരു കാര്യമാണ് അതിനാൽ ആദ്യം ആ ഭാഗം നാം മനസ്സിലാക്കണം രണ്ടാമത്തെ കാര്യം IoT ലോകത്ത് നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു നിർണായക കാര്യമുണ്ട് അതാണ് ഈ പ്രോട്ടോക്കോളുകൾ ആവശ്യമായി വരുന്നത് മനുഷ്യരോ മനുഷ്യ പ്രവർത്തനമോ മനുഷ്യ പ്രേരിത സംഭവങ്ങളോ ഇന്റർനെറ്റിൽ ട്രാഫിക് സൃഷ്ടിക്കുന്ന ദിവസങ്ങൾ കഴിഞ്ഞു ധാരാളം ട്രാഫിക് സൃഷ്ടിക്കാൻ പോകുന്ന മെഷീനുകളുണ്ട് വളരെയധികം ട്രാഫിക് ഉപയോഗിക്കുന്ന മെഷീനുകളാണ് ഇത് അതിനാൽ ഡാറ്റാ ഉറവിടങ്ങളും ഡാറ്റ സമന്വയവും പ്രധാനമായും ഇവിടെയുള്ള മെഷീനുകൾക്കാണ് നിങ്ങൾക്ക് ഉപകരണവുമായി സംസാരിക്കാൻ കഴിയുന്ന പരിഹാരങ്ങൾ നൽകുന്ന മറ്റ് നിരവധി വെണ്ടർമാർ ഉണ്ടെങ്കിൽ ഉപകരണം നിങ്ങൾക്ക് വിവരങ്ങൾ കണ്ടെത്തുകയും പാചകക്കുറിപ്പുകളെക്കുറിച്ചും മറ്റും പറയുകയും ചെയ്യും അതിനാൽ അത് ചെയ്യുന്ന പല കാര്യങ്ങളും ശബ്ദ തിരിച്ചറിയൽ സംസാരം എല്ലാം ഇതിലുണ്ട് അതിനാൽ ധാരാളം IoT ഉൽപ്പന്നങ്ങൾ ഉണ്ട് പിന്നിൽ ധാരാളം പഠന സംവിധാനങ്ങൾ ഉപയോഗിക്കുന്ന ഉപകരണങ്ങളും ഉണ്ട് മാത്രമല്ല ഇത് ആത്യന്തികമായി ബുദ്ധിയുള്ള ഒരു ഉപകരണമാണ് കാരണം വ്യത്യസ്ത ശബ്ദങ്ങൾ തമ്മിൽ വേർതിരിച്ചറിയാനും ഉപകരണത്തിന്റെ ഉടമ നൽകിയ കമാൻഡുകൾ എടുക്കാനും തിരിച്ചറിയാനും പ്രാവർത്തികമാക്കാനും കഴിവുണ്ടെന്ന് നിങ്ങൾക്കറിയാം ഇതെല്ലാം നല്ലതാണ് പരിശീലനം ലഭിച്ച ആമസോൺ എക്കോയും നിങ്ങൾക്കറിയാം ആമസോൺ എക്കോ അത്തരത്തിലുള്ള ഒരു ഉപകരണമാണ് അപ്പോൾ നിങ്ങൾക്ക് സിരി ഉണ്ട് അത് യഥാർത്ഥത്തിൽ നിരവധി ഫോൺ ഉൽപ്പന്നങ്ങളുമായി സംയോജിപ്പിച്ചിരിക്കുന്നു അവയ്ക്ക് ഒരു സ്റ്റാൻഡ്അലോൺ ഉപകരണവും മറ്റും ഉണ്ടാകും അതിനാൽ ശബ്ദതിരിച്ചറിയൽ ശബ്ദത്തെ അടിസ്ഥാനമാക്കിയുള്ള കമാൻഡുകൾ എന്നിവ അടിസ്ഥാനമാക്കിയുള്ള മറ്റ് നിരവധി ഉപകരണങ്ങൾ വരുന്നു ഓർമിക്കുക ഒരൊറ്റ പദത്തെക്കുറിച്ച് ശരിയായ കമാൻഡ് തിരിച്ചറിയൽ തരത്തിലുള്ള അൽഗോരിതം പ്രത്യേകിച്ച് വൈബ്രേഷൻ എനർജി ഹാർവെസ്റ്റിനെക്കുറിച്ച് നമ്മൾ ചർച്ച ചെയ്യുമ്പോൾ ഞാൻ നിങ്ങളോട് പരാമർശിക്കുന്ന ഈ ഡൈനാമിക് ടൈം വാർപ്പിംഗ് അൽഗോരിതം ഡിടിഡബ്ല്യു ഞാൻ പരാമർശിച്ചു നന്നായി ഉപയോഗിച്ച അൽഗോരിതം എങ്കിൽ ഉദാഹരണത്തിന് നമുക്ക് മുന്നിൽ ഒരു മനുഷ്യൻ അല്ലെങ്കിൽ ഒരു കമാൻഡ് സംസാരിക്കുന്ന ഒരു ടെലിവിഷൻ ആകാം അത് യഥാർത്ഥത്തിൽ ഒരു ടെലിവിഷൻ സീരിയലിന്റെ ഭാഗത്തുനിന്നാണ് വരുന്നതെന്ന് അറിയില്ല യഥാർത്ഥത്തിൽ അത് പോലീസിനെ വിളിക്കുന്നു പലതവണ നിങ്ങൾക്ക് ഇത്തരത്തിലുള്ള ഉപകരണങ്ങളിൽ ഇത്തരം പ്രശ്നങ്ങൾ ഉണ്ടാകാം കാരണം അവ ആ അർത്ഥത്തിൽ അൽപം വിഡ്ഢികൾ ആണ് അതിനാൽ അത്തരം നല്ല കാര്യങ്ങളും സംഭവിക്കാം അതിനാൽ ഇതിനെ അത്തരം ഉപകരണങ്ങളിലെ ബഗ് എന്നാണ് നിങ്ങൾ ഇതിനെ വിളിക്കുന്നത് അതിനാൽ അത് നിങ്ങൾക്ക് അനുകൂലമായി പ്രവർത്തിക്കുന്നുവെങ്കിൽ അത് മനുഷ്യന് അനുകൂലമായി പ്രവർത്തിക്കുന്നുവെങ്കിൽ ഇത് ഒരു നല്ല സവിശേഷതയാണെന്ന് വ്യക്തം എന്തായാലും ഇതെല്ലാം വ്യക്തമായി സൂചിപ്പിക്കുന്നത് ഒരു യന്ത്രം യഥാർത്ഥത്തിൽ ഡാറ്റ ശേഖരിക്കുക വ്യാഖ്യാനിക്കുക മനസിലാക്കുക ബുദ്ധിശക്തി ഉണ്ടായിരിക്കുകയും സഹായവും പിന്തുണയും വിളിക്കുകയും ചെയ്തു എന്നാണ് ഒരു ഉപഭോക്താവുണ്ടായിരുന്നു അത് ഒരു യന്ത്രം കൂടിയാണെങ്കിലും അത് പോലീസിലേക്ക് വിളിക്കാൻ ആവശ്യപ്പെട്ടു അതിനാൽ ഒരു മെഷീന് ഡാറ്റ ലഭിക്കുന്നു ഒരു മെഷീൻ കൈമാറ്റം ചെയ്ത ഡാറ്റ അതിനാൽ ഐഒടി ലോകത്തിലെ പ്രോട്ടോക്കോളുകൾ നിറവേറ്റേണ്ടതുണ്ട് അതിനാൽ ഈ പ്രോട്ടോക്കോളുകളിലൊന്നിന്റെ വിശദാംശങ്ങളിലേക്ക് കടക്കുന്നതിന് മുമ്പ് ഇത് പ്രധാന ആവശ്യകതയാണ് ഈ ഐഒടി സിസ്റ്റങ്ങളെ പിന്തുണയ്ക്കേണ്ട അടിസ്ഥാന ആവശ്യകതകൾ എന്തൊക്കെയാണ് എന്ന് നിങ്ങൾ ശരിയായി അറിയണം ഞാൻ ഓരോന്നായി എഴുതുന്നു ഇത് ഒരു സമഗ്രമായ പട്ടികയല്ലെന്ന് ഞാൻ കരുതുന്നു പക്ഷേ ഇത് ഏതെങ്കിലും പ്രോട്ടോക്കോൾ ചർച്ചയിൽ പ്രവേശിക്കുന്നതിന് മുമ്പ് നിങ്ങളെ പ്രചോദിപ്പിക്കുന്നതിന് വേണ്ടിയാണ് കാരണം പ്രോട്ടോക്കോൾ ഒരു മാനദണ്ഡമാണ് നിങ്ങൾ മാനദണ്ഡം നന്നായി മനസ്സിലാക്കണം നിങ്ങൾ ആർഎഫ്സിയുടെ സമഗ്രതകൾ നന്നായി മനസിലാക്കുന്നു തുടർന്ന് നിങ്ങൾ ആർഎഫ്സി നടപ്പിലാക്കുന്നു നിങ്ങൾക്ക് ഒരു പ്രോട്ടോക്കോൾ ലഭിക്കും തീർച്ചയായും പ്രോട്ടോക്കോൾ രൂപകൽപ്പന ചെയ്യുന്നത് ഒരു ഭാഗമാണ് പക്ഷേ പ്രോട്ടോക്കോളിന്റെ സ്ഥിരത പരിശോധിക്കുന്നത് മറ്റൊരു കാര്യമാണ് ഇവയെല്ലാം അടിസ്ഥാനപരമായി ഈ പ്രോട്ടോക്കോൾ പ്രവർത്തനത്തിന്റെ കൃത്യത ഉറപ്പുവരുത്തുന്നതിനും പ്രതീക്ഷിച്ച പ്രവർത്തനം യഥാർത്ഥത്തിൽ സംഭവിക്കുന്നുവെന്ന് ഉറപ്പാക്കുന്നതിനും ബഗുകൾ കളയുന്നതിനും അടിസ്ഥാന പ്രോട്ടോക്കോൾ കർശനമാക്കുന്നതിനും വേണ്ടിയാണ് അതിനർത്ഥം അനുരൂപത നോക്കുക എന്നതാണ് കേടുപാടുകൾ നോക്കുമ്പോൾ പ്രോട്ടോക്കോളിലെ ലൂപ്ഹോളുകൾ എവിടെയാണെന്ന് നിങ്ങൾക്കറിയാം കാരണം നിങ്ങൾ ഐഒടിയെക്കുറിച്ച് സംസാരിക്കുമ്പോൾ സുരക്ഷ ശ്രദ്ധിക്കണം അതിനാൽ സുരക്ഷ ദുർബലതയെ ചൂഷണം ചെയ്യുന്നു സുരക്ഷ പ്രോട്ടോക്കോൾ ഉപയോഗപ്പെടുത്തുന്നു എല്ലാം നിങ്ങൾക്കറിയണം അതിനാൽ എല്ലാം പരീക്ഷിക്കേണ്ടതുണ്ട് നിങ്ങൾക്ക് ഒരുതരം പ്രോട്ടോക്കോൾ ചെയ്യേണ്ടിവരാം നിരവധി ടെസ്റ്റ് കേസുകൾ പരീക്ഷിക്കുകയോ അല്ലെങ്കിൽ പ്രോട്ടോക്കോൾ സ്റ്റാക്കിൽ ഹോൾ ഉണ്ടാക്കുമെന്ന് നിങ്ങൾക്കറിയാവുന്ന വളരെ നിർണായകമായ ഗുരുതരമായ ചൂഷണങ്ങൾ നോക്കുകയോ നമ്മൾ ചെയ്യേണ്ടതുണ്ട് നിങ്ങൾ ചെയ്യാൻ താൽപ്പര്യപ്പെടുമ്പോൾ IoTയുടെ ലോകത്തിലെ മറ്റൊരു വലിയ പ്രവർത്തനം ഞാൻ പറയും ആ വിശദാംശങ്ങളിലേക്ക് കടക്കില്ല കാരണം ഈ പരിമിതമായ സമയത്തിനുള്ളിൽ ആദ്യം അടിസ്ഥാന പ്രോട്ടോക്കോൾ മനസിലാക്കണം വേഗത്തിൽ ഒരു ഡെമോയിൽ പ്രവേശിക്കണം നിങ്ങൾക്ക് എങ്ങനെ ഈ പ്രോട്ടോക്കോൾ ഉപയോഗിക്കാമെന്ന് മനസിലാക്കണം കാരണം ആത്യന്തിക ലക്ഷ്യം ഈ പ്രോട്ടോക്കോൾ ഇപ്പോൾ ഉള്ളതുപോലെ തന്നെ ഉപയോഗിക്കുക എന്നതാണ് ഒപ്പം വളരെ വേഗത്തിൽ ഒരു സിസ്റ്റം നിർമ്മിക്കുകയും ചെയ്യുന്നു അതിനാൽ അതാണ് നിങ്ങൾ ആത്യന്തികമായി ലക്ഷ്യമിടേണ്ടത് അതിനാൽ ഞാൻ യഥാർത്ഥത്തിൽ പ്രോട്ടോക്കോളിലേക്ക് കടക്കുന്നതിന് മുമ്പ് കുറച്ച് ആവശ്യകതകൾ ഞാൻ പറയും ഞാൻ ഒരു പുതിയ പേജ് എടുക്കുകയും അത് ആരംഭിക്കുകയും ചെയ്യും അതിനാൽ IoT ആവശ്യകതകൾ ഞാൻ പറയും മികച്ച പദത്തിന്റെ അഭാവം കാരണം ഞാൻ ഇത് ഉപയോഗിച്ചിട്ടില്ലെന്ന് ഞാൻ കരുതുന്നു ആദ്യം നിങ്ങൾ രൂപകൽപ്പന ചെയ്യുന്ന ഏതൊരു ഐഒടി സിസ്റ്റവും ചലനാത്മകവും സ്വയം സ്വീകരിക്കുന്നതുമായിരിക്കണം യഥാർത്ഥത്തിൽ എന്താണ് അർത്ഥമാക്കുന്നത് എന്നത് വളരെ ലളിതമാണ് ഉദാഹരണത്തിന് നിങ്ങൾ ഒരു ക്യാമറ നിരീക്ഷണ ക്യാമറ എടുക്കുന്നു അതിനാൽ ഒരു ക്യാമറ ചെയ്യുന്നതെന്താണെന്നറിയാൻ ഞാൻ ഒരു ക്യാമറയുടെ ഒരു ഉദാഹരണം ഇടാം നിങ്ങളുടെ വീടിന് മുന്നിൽ ഞങ്ങൾ സൂക്ഷിച്ചിരിക്കുന്ന ഒരു നിരീക്ഷണ ക്യാമറ അല്ലെങ്കിൽ എടുക്കാൻ ഞങ്ങളെ അനുവദിക്കുന്നതാണ് ക്യാമറ ഈ ക്യാമറയുടെ എല്ലാ സമയ നിരീക്ഷണവും നിങ്ങൾ ആഗ്രഹിക്കുന്നു അതായത് ഈ ക്യാമറയുടെ 24 ബാർ 7 മോണിറ്ററിംഗ് എന്താണ് സംഭവിക്കുന്നതെന്ന് നോക്കൂ നിങ്ങൾക്ക് പകൽ വെളിച്ചമുണ്ട് പകൽ നല്ല സൂര്യപ്രകാശമുണ്ട് വൈകുന്നേരം മുഴുവൻ സിസ്റ്റവും ഇരുണ്ടതായിത്തീരുന്നു നിങ്ങൾക്ക് ഇപ്പോഴും നല്ല ചിത്രങ്ങൾ ആവശ്യമാണ് വൈകുന്നേരം കറുപ്പും വെളുപ്പും ചിത്രങ്ങളിൽ വിട്ടുവീഴ്ച ചെയ്യുന്നതിൽ നിങ്ങൾക്ക് പ്രശ്നമില്ല സൂര്യൻ അസ്തമിച്ചതിനുശേഷം നിങ്ങൾക്കറിയാം അല്ലെങ്കിൽ നിങ്ങൾക്ക് ലൈറ്റിംഗ് വർദ്ധിപ്പിക്കാൻ കഴിഞ്ഞാൽ ക്യാമറ സെൻസറിന് ഇപ്പോഴും വർണ്ണ ചിത്രങ്ങൾ എടുക്കാൻ കഴിയും അതിനാൽ എനർജി ഹാർവെസ്റ്റിംഗും ഫോട്ടോവോൾട്ടെയ്ക്ക് സിസ്റ്റങ്ങളും മറ്റും നോക്കുമ്പോൾ ഇതിനകം വിവരിച്ച ലക്സ് എന്ന് വിളിക്കുന്ന ഒരു പ്രധാന പാരാമീറ്റർ ഉണ്ട് അതിനാൽ നിങ്ങൾ വാങ്ങാൻ ആഗ്രഹിക്കുന്ന നിരീക്ഷണ ക്യാമറയ്ക്കുള്ള ഒരു സവിശേഷതയായിരിക്കും അവ യൂണിറ്റ് ആയ വളരെ കുറഞ്ഞ ലക്സിന് കീഴിൽ നിരീക്ഷിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു അതിനാൽ എന്റെ ക്യാമറയ്ക്ക് നൽകാൻ കഴിയുന്നത് 0 001 ലക്സ് ആണെന്ന് പറയും മറ്റൊരാൾ പറയും എനിക്ക് നിങ്ങൾക്ക് 0 1 ലക്സ് മാത്രമേ നൽകാൻ കഴിയൂ അതിനാൽ ഇത് ഒരു പ്രധാന പാരാമീറ്ററാണ് ഈ ക്യാമറ സെൻസർ വാങ്ങുന്നതിനുമുമ്പ് നിങ്ങൾ നോക്കുന്ന മറ്റൊരു പാരാമീറ്റർ അത് രാവും പകലും പ്രവർത്തിക്കണം എന്നതാണ് ഒരു ക്യാമറ വാങ്ങുമ്പോൾ ഡാറ്റ ഷീറ്റുകളിലൂടെ നിങ്ങൾ പോയാൽ ഇത് അപര്യാപ്തമായ ഒരു സവിശേഷതയാണെന്ന് ഞാൻ പറയും രാത്രിയിൽ സിസ്റ്റത്തിൽ ഐആർ പ്രകാശം ഉണ്ടെന്ന് നിങ്ങൾ ഉറപ്പാക്കണം അതിനാൽ ലൈറ്റ് താഴുകയാണെങ്കിൽ ലക്സ് വളരെ ചെറിയ മൂല്യത്തിലേക്ക് പോയാൽ ഐആർ ക്യാമറയ്ക്ക് ഐആർ ലീഡ് ഉണ്ടായിരിക്കും ഞാൻ കണ്ട ഒരു ക്യാമറ ഞാൻ നിങ്ങളോട് പറയുന്നു അതിനാൽ ഇതാണ് പ്രധാന ലെൻസ് ഇവയെല്ലാം പിന്തുണയ്ക്കുന്ന എൽഇഡികളാണ് ഇത് പ്രകാശം കുറവാണെന്ന് തോന്നുന്ന നിമിഷത്തിൽ സ്വിച്ച് ഓൺ ചെയ്യുന്നു തിരികെ പോയി നിങ്ങളുടെ നിർവചനം നോക്കുക അത് ചലനാത്മകവും സ്വയം പൊരുത്തപ്പെടുന്നതുമാണ് ലക്സ് കുറഞ്ഞുവെന്ന് തിരിച്ചറിയാൻ അതിന് കഴിയും ഉടൻ തന്നെ ഐആർ എൽഇഡി ഓൺ ചെയ്യണമെന്ന് പറയുന്നു അതിനാൽ ഞാൻ നിരീക്ഷണം നടത്തുന്ന സ്ഥലത്ത് അടിസ്ഥാനപരമായി ഐആർ സംവിധാനത്തെ പ്രകാശിപ്പിക്കാൻ കഴിയും അങ്ങനെ കുറഞ്ഞത് കറുപ്പും വെളുപ്പും ചിത്രങ്ങളെങ്കിലും ക്യാമറയ്ക്ക് എടുക്കാൻ കഴിയും മൂന്നാമത്തെ കാര്യം അതായത് ലെൻസ് അടിസ്ഥാനപരമായി നിങ്ങൾക്ക് ആവശ്യമില്ലാത്ത ഐആർ നീക്കംചെയ്യണം ഇതിനകം തന്നെ മതിയായ പ്രകാശം ഉള്ളതിനാൽ ഐആർ ലൈറ്റ് വരാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നില്ല മാത്രമല്ല ദൃശ്യമാകുന്ന പ്രകാശം ക്യാമറ സെൻസറിന് ഇമേജുകളുടെ വർണ്ണ ചിത്രങ്ങൾ എടുക്കാൻ പര്യാപ്തമാണ് രാത്രിയിൽ പ്രകാശം വളരെ മോശമാണെന്നും നിങ്ങൾക്ക് വെളുത്ത വെളിച്ചത്തിന് തുല്യമായത് നൽകാൻ കഴിയില്ല കാരണം സൂര്യപ്രകാശം നൽകുന്ന പ്രകാശത്തിന്റെ മുഴുവൻ സ്പെക്ട്രത്തെയും പോലെ നിങ്ങൾക്ക് ചെയ്യാൻ കഴിയില്ല നിങ്ങൾ സൃഷ്ടിക്കുന്ന കൃത്രിമ വെളുത്ത വെളിച്ചം വർണ്ണ ചിത്രങ്ങൾക്ക് മതിയാകും അതും അപര്യാപ്തമാണെങ്കിൽ ക്യാമറ കറുപ്പ് വെളുപ്പ് എന്നിവയിലേക്ക് മാറണം അതിനാൽ കറുപ്പും വെളുപ്പും മാറുമ്പോൾ നിങ്ങൾക്ക് ഐആർ പ്രകാശം ആവശ്യമാണ് അതിനാൽ ലെൻസിൽ നിന്ന് നേരിട്ട് ഐആർ ഫിൽട്ടർ നീക്കം ചെയ്യുന്ന ഒരു മോട്ടോർ സിസ്റ്റം ആവശ്യമുണ്ട് ഒന്നുകിൽ അത് ചെയ്യണം അല്ലെങ്കിൽ ലെൻസ് സൂക്ഷിച്ച് അത് സ്വിച്ചുചെയ്യുക അതിനാൽ ഈ ഐആർ എൽഇഡികൾ സ്വിച്ച് ഓഫ് ചെയ്യാനും വാസ്തവത്തിൽ ക്യാമറ രാത്രിയിൽ സാധാരണ നിലയിൽ പ്രവർത്തിക്കുന്നു കാര്യക്ഷമമായതിനാൽ എൽഇഡി ലൈറ്റിംഗ് നല്ലതാണെന്ന് നമുക്ക് പറയാം ക്യാമറയ്ക്ക് കളർ മോഡിലേക്ക് തിരികെ പോകാൻ കഴിയുന്ന തരത്തിൽ ഒരു നല്ല സ്പെക്ട്രം ഉൾക്കൊള്ളുന്ന നല്ല അളവിലുള്ള എൽഇഡി ലൈറ്റിംഗ് ഇതെല്ലാം അർത്ഥമാക്കുന്നത് ഇവിടെ ചലനാത്മകവും സ്വയം ചെയ്യാൻ കഴിയുന്നതുമാണ് ഇത് അതിനാൽ നിങ്ങൾക്ക് അത് കൈമാറാൻ താൽപ്പര്യപ്പെടാം അത് ഏതെങ്കിലും വിധത്തിൽ എൻകോഡുചെയ്യാൻ നിങ്ങൾ താൽപ്പര്യപ്പെടുന്നു മാത്രമല്ല നിങ്ങൾ കംപ്രസ്സുചെയ്യാൻ താൽപ്പര്യപ്പെടുകയും തുടർന്ന് നെറ്റ്വർക്കിലെ കംപ്രസ്സുചെയ്ത വീഡിയോ ശരിയായി പ്രക്ഷേപണം ചെയ്യുകയും വേണം അതിനാൽ ക്യാമറ സെൻസർ ഇടാമെന്ന് ഞാൻ പറയും ഇത് ക്യാമറ സെൻസറിന് തുല്യമാണ് ഇത് ഒരു പൂർണ്ണ ചിത്രമല്ല പക്ഷേ ഇതാണ് നെറ്റ്വർക്ക് അതിനാൽ സെക്കൻഡിൽ 30 ഫ്രെയിമുകൾ എന്ന് പറയട്ടെ നിങ്ങൾ ചില എൻകോഡും കംപ്രസിംഗ് സ്കീമും ഉപയോഗിക്കുന്നു അത് H 264 അല്ലെങ്കിൽ ഈ സ്റ്റാൻഡേർഡ് കംപ്രഷൻ സ്കീമുകളിലൊന്നാകാം കൂടാതെ ഒരു കേന്ദ്ര സംഭരണ ഉപകരണത്തിലേക്ക് ഡാറ്റ അയയ്ക്കാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നു കാരണം നിങ്ങൾ വീഡിയോ സ്ട്രീമുകൾ ആർക്കൈവുചെയ്യാൻ ആഗ്രഹിക്കുന്നു ഈ ക്യാമറയ്ക്ക് കുറുകെ ഒരു മനുഷ്യ ചലനം ഉണ്ടാകുമ്പോൾ മാത്രമേ അത് ആരംഭിക്കാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നുള്ളൂ അതിനാൽ ഈ ചലനം ക്യാമറകളെ പ്രേരിപ്പിച്ചു അവയ്ക്ക് ഒരു പിഐആർ സെൻസർ ഉണ്ടായിരിക്കും പിആർ സെൻസർ ചലനം കണ്ടെത്തും ചലനം ആരംഭിക്കുമ്പോൾ റെക്കോർഡിംഗ് ആരംഭിക്കും അത് കംപ്രഷൻ ചെയ്യും തുടർന്ന് അത് നെറ്റ്വർക്കിൽ ട്രാൻസ്മിഷൻ ചെയ്യും നെറ്റ്വർക്ക് പരാജയപെടുമ്പോൾ ഒരു ലോക്കൽ സ്റ്റോറേജ് ആവശ്യമാണ് ക്യാമറ വീണ്ടും സ്വയം പൊരുത്തപ്പെടണം അതായത് നെറ്റ്വർക്ക് പ്രവർത്തനരഹിതമാണെന്ന് അയച്ചിട്ടുണ്ട് ഞാൻ ഒരു സ്വിച്ച് ഓഫ് ചെയ്യുകയും ലോക്കൽ സ്റ്റോറേജിൽ ഡാറ്റ തിരികെ വയ്ക്കുകയും ചെയ്യുന്നു അത് എങ്ങനെ പ്രവർത്തിക്കും അതിനാൽ ഈ ക്യാമറയെ ANR സവിശേഷത എന്ന് വിളിക്കുന്ന സവിശേഷതകളുണ്ട് ഈ പ്രത്യേക വശത്തെ ഓട്ടോമാറ്റിക് നെറ്റ്വർക്ക് റെക്കോർഡിംഗ് എന്നും വിളിക്കുന്നു ദയവായി ആ വിപുലീകരണം നോക്കുക അവിടെ ഒരു സവിശേഷതയുണ്ട് അത് വീണ്ടും പ്രധാന പോയിന്റാണ് അത് ചലനാത്മകവും സ്വയം സ്വാംശീകരിക്കലും വളരെ പ്രധാനപ്പെട്ട സവിശേഷതയാണെന്നും ഇത് വളരെ നല്ല IoT ഉൽപ്പന്നമാണെന്നും വസ്തുത ഊന്നിപ്പറയുന്നു PIR സെൻസറുകൾ അടിസ്ഥാനപരമായി വ്യത്യസ്ത വയർഡ് സെൻസറുകളാണ് അടിസ്ഥാനപരമായി ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഇത് ഭൌതികശാസ്ത്രത്തിലെ പൈറോ ഇലക്ട്രിക് ഇഫക്റ്റ് എന്ന ആശയം ഉപയോഗിക്കുന്നു ഇതിനെ പാസ്സീവ് ഇൻഫ്രാറെഡ് സെൻസർ എന്നും വിളിക്കുന്നു അടിസ്ഥാനപരമായി അതിനർത്ഥം ഒരു മനുഷ്യനുണ്ടെങ്കിൽ മനുഷ്യൻ എല്ലായ്പ്പോഴും ധാരാളം ഐആർ വികിരണം പുറപ്പെടുവിക്കുന്നു എന്നാണ് ഈ ഐആർ വികിരണം സെൻസറിന് മുന്നിൽ പ്രത്യക്ഷപ്പെടുകയാണെങ്കിൽ അതിൽ ഒരു മനുഷ്യനുണ്ടെന്ന് പറയുന്നു ചലനമുണ്ടെന്ന് ഇത് പറയുന്നു അത് ഏതു മനുഷ്യൻ ആണ് എന്ന് അത് പറയുന്നില്ല ഒരു ചലനമുണ്ടെന്ന് അത് സെൻസർ ചെയ്യുന്നു ഈ ക്യാമറ ഉപയോഗിച്ച് ഞങ്ങൾ റെക്കോർഡിംഗ് പ്രക്രിയ ആരംഭിക്കും അതിനാൽ ക്യാമറ റെക്കോർഡിംഗ് ചലനം മനുഷ്യർ മൂലമാണോ അതോ മറ്റ് മൃഗങ്ങൾ മൂലമാണോ എന്ന ചലനത്തെ അടിസ്ഥാനപരമായി വേർതിരിച്ചറിയാൻ ലളിതമായ PIR സംവിധാനങ്ങൾ ഉപയോഗിക്കുന്നതിന് ധാരാളം ഗവേഷണങ്ങൾ നടക്കുന്നു ക്യാമറ മുറിക്കുന്ന ഒരു നായ ഉണ്ടെങ്കിൽ പോലും അത് റെക്കോർഡിംഗ് ആരംഭിക്കും അതിനാൽ നിങ്ങൾ അത് ചെയ്യേണ്ടതില്ല നിങ്ങൾക്ക് ഒരു ഇന്റലിജന്റ് സിസ്റ്റം നിർമ്മിക്കാൻ താൽപ്പര്യമുണ്ട് കൂടാതെ ഒന്നിലധികം പിഐആർ സിസ്റ്റങ്ങൾ നിർമ്മിക്കുന്നതിന് കുറച്ച് സമയവും ഊർജ്ജവും സാങ്കേതിക പരിശ്രമവും നിക്ഷേപിക്കുന്നത് മൂല്യവത്താണ് അത് വേർതിരിച്ചറിയാനുള്ള ഒരു സംവിധാനമെന്ന നിലയിൽ ഈ പിആർ സിസ്റ്റങ്ങളിൽ നിന്നും വരുന്ന ഒന്നിലധികം സിഗ്നലുകൾ ഉപയോഗിക്കുക ക്യാമറ മുറിച്ചുകടക്കുന്ന മനുഷ്യനാണോ അതോ മൃഗമാണോ എന്ന് തിരിച്ചറിയുന്നതിനുള്ള മാർഗ്ഗങ്ങൾ ഒരു മൃഗമുണ്ടെങ്കിൽ നിങ്ങൾ റെക്കോർഡിംഗ് ആരംഭിക്കുന്നില്ല അതായത് നിങ്ങൾ ക്യാമറയിലേക്ക് അധിക ബുദ്ധി ചേർത്തു ഇമേജ് ലഭിച്ച ക്യാമറയാണ് ഉദാഹരണത്തിന് നിങ്ങൾക്ക് ക്യാമറ ചിത്രം തുറന്ന് ഇത് ഒരു നായയാണെന്ന് പറയാം അതിനാൽ ഞാൻ അത് ചെയ്യാൻ പോകുന്നില്ല എന്നാൽ പ്രധാന സെൻസിംഗ് യഥാർത്ഥത്തിൽ വന്നത് പിഐആറിൽ നിന്നാണ് മാത്രമല്ല അതിൽ പ്രവർത്തിക്കുന്ന അൽഗോരിതം നിന്നാണ് മൃഗവും മനുഷ്യനും തമ്മിലുള്ള നല്ല ക്ലാസിഫയർ ഇത് ഒരു നായയാണെന്ന് ഞാൻ കണ്ടെത്തിയെന്നും അത് ക്യാമറയ്ക്ക് ഒരു ട്രിഗർ നൽകുന്നുവെന്നും നിങ്ങൾ പോയി ഇത് ശരിക്കും ഒരു നായയാണോയെന്ന് പരിശോധിക്കുക എന്നും ക്ലാസിഫയർ പറയുന്നു തുടർന്ന് നിങ്ങൾ ക്യാമറയിൽ സ്വിച്ചുചെയ്യുക ക്യാപ്ചറിൽ നിന്ന് നിങ്ങൾ അത് തിരിച്ചറിഞ്ഞ് ഒരു വീഡിയോ അനലിറ്റിക്സ് അല്ലെങ്കിൽ ഒരു ഇമേജ് അനലിറ്റിക്സ് അൽഗോരിതം പ്രവർത്തിപ്പിക്കുന്നു അത് യഥാർത്ഥത്തിൽ ഒരു നായയാണെന്ന് കണ്ടെത്തി അത് ഒരു നായയാണെങ്കിൽ ഞാൻ ഒരു റെക്കോർഡിംഗും ചെയ്യാൻ പോകുന്നില്ലെന്ന് പറയുക അങ്ങനെയാണെങ്കിൽ ഹാർഡ് ഡിസ്ക് ഇടം ലാഭിക്കും ഒരു സിസ്റ്റം നിർമ്മിക്കുന്നതിന് ഈ ചലനാത്മകവും സ്വയം പൊരുത്തപ്പെടുന്നതുമായ സവിശേഷതയുടെ എല്ലാ പിന്തുണയും IoTന് ആവശ്യമാണെന്നതിന്റെ വ്യക്തമായ സൂചകമാണ് ഇത് ഇത് വളരെ പ്രധാനപ്പെട്ട ആവശ്യകതയാണ് രണ്ടാമത്തെ കാര്യം സ്വയം ക്രമീകരിക്കുകയാണ് മറ്റൊരു വിധത്തിൽ പറഞ്ഞാൽ സോഫ്റ്റ് വെയർ അപ്ഡേറ്റുകളെക്കുറിച്ചും ആശയവിനിമയത്തിനായി സെൻസിംഗിനായി ഡ്യൂട്ടി സൈക്കിൾ ക്രമീകരിക്കുന്നതിനെക്കുറിച്ചും സംസാരിക്കും അത് കുറച്ച് സെൻസിംഗ് നടത്തുകയാണെങ്കിൽ അതിന്റെ ഡ്യൂട്ടി സൈക്കിൾ ക്രമീകരിക്കാൻ കഴിയണം ഞാൻ നിങ്ങൾക്ക് വളരെ ലളിതമായ ഒരു ഉദാഹരണം നൽകുന്നു നിരീക്ഷിക്കാൻ പ്രതീക്ഷിക്കുന്ന ഒരു സെൻസർ ഉണ്ടെന്ന് നമുക്ക് പറയാം അതിനാൽ ഇതാണ് താപനില ഞാൻ അത് ദൃശ്യപരമായി താഴെയിടുകയാണ് അവിടെ ഒരു ബാൻഡ് ഉണ്ട് ഇതാണ് ബാൻഡ് നിങ്ങൾ പറയുന്നു ഇത് താഴ്ന്ന പരിധി ഇത് മുകളിലെ പരിധി ഇത് നിരീക്ഷിക്കേണ്ട സ്ഥലമാണ് ഈ ബാൻഡിനുള്ളിൽ താപനില ഉള്ളിടത്തോളം കാലം നിങ്ങൾ ഓരോ 5 മിനിറ്റിലും സാമ്പിൾ ചെയ്യുന്നു ഞാൻ ചില ഉദാഹരണങ്ങൾ ഇടുകയാണ് കുറഞ്ഞ റെസല്യൂഷനിൽ ഇത് ചെയ്യുക 16 ബിറ്റിൽ ചെയ്യരുത് 24 ബിറ്റിൽ ചെയ്യരുത് 8 ബിറ്റിൽ അല്ലെങ്കിൽ 6 ബിറ്റിൽ ചെയ്യുക സാമ്പിൾ സമയം വളരെ ഉയർന്നതാണ് പക്ഷേ അത് മുകളിലേക്കോ താഴേക്കോ നീങ്ങാൻ തുടങ്ങുമ്പോൾ നിങ്ങളുടെ സിസ്റ്റത്തിന്റെ ഡ്യൂട്ടി സൈക്കിൾ മാറ്റാൻ നിങ്ങൾക്ക് കഴിയണം അതുവഴി കൂടുതൽ ശ്രേദ്ധയോടെ നിരീക്ഷിക്കാൻ കഴിയും മൂന്നാമത്തെ കാര്യം പരസ്പരപ്രവർത്തനം നടക്കേണ്ട ഒരു ലോകത്ത് നിങ്ങൾ ജീവിക്കാൻ ബാധ്യസ്ഥരാണ് അതിനാൽ ഞാൻ പരസ്പരം ആശയവിനിമയം നടത്തേണ്ടത് അനിവാര്യമാണ് ഞാൻ ഇത് പൂർത്തിയാക്കട്ടെ അതിനർത്ഥം വെണ്ടർ എന്തായാലും ഏതാണ് വെണ്ടർ അവൻ ഏത് പ്രോട്ടോക്കോൾ കൊണ്ടുവന്നാലും സെൻസറിന് പരസ്പരം സംസാരിക്കാൻ കഴിയണം ഞാൻ ഇത് മാത്രം ചെയ്യാൻ പോകുന്നുവെന്നും ഇത് പ്രവർത്തിക്കില്ലെന്നും നിങ്ങൾക്ക് പറയാൻ ഒരു വഴിയുമില്ല നിങ്ങൾ ക്ലോസ്സഡ് സ്റ്റാൻഡേർഡ് ആയി ചെയ്യുകയാണെങ്കിൽ നിങ്ങൾ ആ വെണ്ടറുമായി ബന്ധപ്പെട്ടിരിക്കുന്നു കൂടുതൽ മെച്ചപ്പെടുത്തലുകൾക്കോ മറ്റ് കാര്യങ്ങൾക്കോ അവരുമായി ബന്ധപ്പെടണം വെണ്ടർ ഷോപ്പ് അടച്ചതിനുശേഷം പോയാൽ ആ വെണ്ടറിൽ നിന്ന് നിങ്ങൾ വാങ്ങിയ എല്ലാ ഉപകരണങ്ങളും പ്രവർത്തിക്കാതെ ആകും അത്തരത്തിലുള്ള കാര്യങ്ങളിൽ വിജയവും സ്കേലബിളിറ്റിയും നേടുന്നത് നിങ്ങൾക്ക് പ്രയാസമാണ് അതിനാൽ നിങ്ങൾ പരസ്പരം പ്രവർത്തിക്കാവുന്ന ആശയവിനിമയം നോക്കാൻ ആഗ്രഹിച്ചേക്കാം നാലാമത്തെ കാര്യം പ്രത്യേക ഐഡന്റിറ്റിയാണ് ഇത് നിങ്ങളുടെ അധാർ കാർഡ് പോലെയാണ് നിങ്ങൾക്ക് പ്രത്യേകമായ ഒരു നമ്പർ ഐഒടി ലോകത്ത് അത് സാധ്യമാകുന്നത് നിങ്ങൾക്ക് ഐപി സ്റ്റാക്ക് ഉണ്ടെങ്കിൽ ഐപി സ്റ്റാക്ക് മാത്രമല്ല അത് ഐപിവി 6 ആയിരിക്കണം കൂടാതെ മെമ്മറി പരിമിതപ്പെടുത്തിയിരിക്കുന്ന ഒരു ചെറിയ നിയന്ത്രിത ഐഒടി ഉപകരണത്തിൽ നിങ്ങൾക്ക് പൂർണ്ണമായി ഐപിവി 6 സ്റ്റാക്ക് ഉണ്ടാകാൻ കഴിയില്ല വലുപ്പം ഒരു പരിമിതി ആണ് കാലാവധി മെച്ചപ്പെടുത്തണമെന്ന് നിങ്ങൾക്കറിയാം നിങ്ങൾക്ക് IPv6 വേണം അതിനാൽ നിങ്ങൾ നിയന്ത്രിത IPv6 ഇടണം കൂടാതെ നിങ്ങൾ സിഗ് ബീ പോലുള്ള മാക് ലെയർ പ്രോട്ടോക്കോൾ ഉപയോഗിക്കുകയാണെങ്കിൽ അവർ യഥാർത്ഥത്തിൽ 6 ലോ പാൻ 6 എന്ന് വിളിക്കുന്ന ഒരു പ്രോട്ടോക്കോളിനെ പിന്തുണയ്ക്കുന്നു അതിനാൽ നിങ്ങൾ പ്രത്യേക ഐഡന്റിറ്റി നോക്കിക്കൊണ്ടിരിക്കണം ഇനി IPv4 അല്ല IPv6 ആവശ്യമാണ് വാസ്തവത്തിൽ നമുക്ക് IPv4 സൌകര്യപ്രദമാണ് പക്ഷെ ഇത് സ്വകാര്യ IP യിലേക്ക് പരിമിതപ്പെടുത്തിയിരിക്കുന്നു ഒന്നുകിൽ ഇത് ക്ലാസിക്കൽ സബ്മിറ്റ് ബേസ്ഡ് സിസ്റ്റങ്ങളുടെ 10 xx xx ശ്രേണി അല്ലെങ്കിൽ 192 168 ആണ് ഇത് ക്ലാസ് എ ആണ് ഇതാണ് ക്ലാസ് ബി അല്ലെങ്കിൽ 168 കൂടി ഉണ്ടെന്ന് ഞാൻ കരുതുന്നു 168 ഉം ഉണ്ട് ഇതാണ് ക്ലാസ് എ ഇത് ക്ലാസ് ബി അതിനാൽ ഇത് സ്വകാര്യ IPv4 ആകാം കോൺസ്ട്രയ്ന്റ് എൻവിറോൺമെൻറ് ആണെങ്കിൽ അത് IPv6 ആയിരിക്കണം നിങ്ങളുടെ എല്ലാ സെൻസിംഗ് കമ്മ്യൂണിക്കേഷൻ പ്രോട്ടോക്കോളുകൾക്കുമായി നിങ്ങൾ സിഗ്ബി തരത്തിലുള്ള മോഡുകൾ അല്ലെങ്കിൽ സിഗ്ബി തരത്തിലുള്ള ഉപകരണങ്ങൾ ഉപയോഗിക്കുകയാണെങ്കിൽ അത് 6LoWPAN ആയിരിക്കണം അഞ്ചാമത്തേത് തീർച്ചയായും വിവര ശൃംഖലയുമായി സംയോജിപ്പിച്ചിരിക്കുന്നു ഇതെല്ലാം വിവര ശൃംഖലയെക്കുറിച്ചുള്ളതാണ് ഇത് നിങ്ങൾ സ്മാർട്ട് കാര്യങ്ങൾ ചെയ്യുന്നതിനെക്കുറിച്ചല്ല അത് ഒരു സ്മാർട്ട് നോഡിനെക്കുറിച്ചല്ല കൂട്ടായ ബുദ്ധിയെക്കുറിച്ചാണ് മിടുക്കും ബുദ്ധിയും പലപ്പോഴും വളരെ സബ്ജെക്റ്റീവ് ആയ കാര്യമാണ് എന്റെ കാഴ്ചപ്പാടിൽ അവ വ്യത്യസ്തമാണ് ഇത് ചിന്തയുമായി കൂടുതൽ ബന്ധപ്പെട്ടിരിക്കുന്നു ഒരു പുതിയ സാഹചര്യത്തിനായി നിങ്ങൾ ആഴത്തിൽ ചിന്തിക്കണം നിങ്ങൾ നേരത്തെ നേരിട്ടിട്ടില്ലാത്ത ഒരു സാഹചര്യത്തിനായി ചിന്തിക്കുന്നു അതിനർത്ഥം നിങ്ങൾക്ക് അവിടെ ബുദ്ധി ആവശ്യമാണ് എന്നാൽ മിടുക്ക് എന്നത് യാന്ത്രികമായി കാര്യങ്ങൾ ചെയ്യുന്നു കൂടാതെ കാര്യങ്ങൾ പ്രോഗ്രാം ചെയ്യുന്നു ചെയ്യുന്നതിന്റെ നിരവധി വശങ്ങൾ ശ്രദ്ധിക്കണം എന്ന് നിങ്ങൾക്കറിയാം ഇത് ഒരു സ്മാർട്ട് സെൻസറാണെന്ന് നിങ്ങൾ പറഞ്ഞാൽ അതിനർത്ഥം നിങ്ങൾക്ക് സ്വന്തമായി പലതും ചെയ്യാൻ കഴിയും ഞാൻ നിങ്ങളോട് സൂചിപ്പിച്ച ക്യാമറ സെൻസറിനെക്കുറിച്ച് നമുക്ക് പറയാം അത് സ്വയം ധാരാളം കാര്യങ്ങൾ ചെയ്യുന്നു പക്ഷേ ശരിക്കും ബുദ്ധി എന്നത് ക്യാമറ സെൻസറിന് എന്തെങ്കിലും പിടികിട്ടി എന്നതാണ് ഞങ്ങൾ ചർച്ച ചെയ്യുന്ന ക്യാമറ സിസ്റ്റം നേരത്തെ അറിയാത്ത ചിലത് പിടിച്ചു ആ സാഹചര്യത്തോട് അത് എങ്ങനെ പ്രതികരിക്കും അത് ഒരുപക്ഷേ ഹയർ ഓർഡർ ആയിരിക്കും ഒരുപക്ഷേ ഇത് വളരെ നല്ല ബുദ്ധിപരമായ സംവിധാനമാണെന്ന് അർത്ഥമാക്കും ഐഒടി ലോകത്ത് ഒരു എന്റിറ്റിയിലൂടെ അത് നേടാൻ വളരെ പ്രയാസമാണെന്ന് ഞാൻ പറയും ഇത് ഒരു കൂട്ടായ നോഡുകളായിരിക്കണം അത് ആത്യന്തികമായി നിങ്ങൾക്ക് ഈ കൂട്ടായ ബുദ്ധി നൽകാൻ നിങ്ങളെ നയിക്കും കാരണം നിങ്ങൾ ഒരു ശേഖരത്തെക്കുറിച്ച് സംസാരിക്കുമ്പോൾ ഉയർന്നുവരുന്ന ഈ സാഹചര്യങ്ങൾ എന്തെങ്കിലും നേടുന്നതിനുള്ള നോഡുകളുടെ സിസ്റ്റത്തിന്റെ മൊത്തത്തിലുള്ള കൂട്ടായ ബുദ്ധിയിലേക്ക് യഥാർത്ഥത്തിൽ ചേർക്കാൻ കഴിയും അതിനാൽ ഇത് ഇപ്പോൾ ഇന്റലിജന്റ് സിസ്റ്റങ്ങൾ അല്ലെങ്കിൽ ഐഒടി സിസ്റ്റങ്ങളുടെ സ്മാർട്ട്നെസ് ഒരു ഭാഗമാണ് ഇപ്പോൾ ഇതാണ് പ്രചോദനം വളരെ ചെറിയ സ്മാർട്ട് ഉപകരണങ്ങൾക്ക് പ്രശ്നമില്ല ചില സമയങ്ങളിൽ സ്മാർട്ട് ഉപകരണങ്ങൾ വളരെ മിടുക്കരായിരിക്കുമ്പോൾ ഒരു പ്രശ്നമുണ്ടായിരിക്കില്ല കൂട്ടായി വളരെ ബുദ്ധിമാനായിരിക്കുക എന്ന വലിയ ലക്ഷ്യം നേടാൻ അവർക്ക് കഴിഞ്ഞേക്കില്ല അതിനാൽ ഈ ഓരോ നോഡുകളും ശേഖരിക്കുന്ന എല്ലാ ഡാറ്റയും സുതാര്യമായ രീതിയിൽ നിങ്ങൾ നേടേണ്ടതുണ്ട് അവ ഒരുമിച്ച് ഒരു കൂട്ടായ വിവരങ്ങൾ നൽകും ഒരുമിച്ച് അവർക്ക് കുറച്ച് കാര്യങ്ങൾ ചെയ്യാൻ കഴിയും ഒരുമിച്ച് അവർക്ക് ആവശ്യമായ ലക്ഷ്യത്തിലെത്താൻ കഴിയും MQTT മെസ്സേജ് ക്യൂ ടെലിമെട്രി ട്രാൻസ്ഫർ എന്ന് വിളിക്കുന്ന ആദ്യത്തെ IoT പ്രോട്ടോക്കോളിലേക്കുള്ള ചെറിയ ആമുഖത്തോടെ സിസ്റ്റത്തിന്റെ ഒരു ഡെമോ നമുക്ക് നോക്കാം ഞങ്ങൾ ഡെമോയ്ക്കായി പോകുന്നതിനുമുമ്പ് കുറച്ച് വിവരങ്ങൾ തരാം ഇത് അടിസ്ഥാനപരമായി ലൈറ്റ് വെയ്ഗ്റ്റഡ് മെസ്സേജ് പ്രോട്ടോകോൾ ആണ് അത് വളരെ പ്രധാനപ്പെട്ട ഒരു മാതൃകയെ അടിസ്ഥാനമാക്കിയുള്ളതാണ് ഇതിന്റെ അടിസ്ഥാനകാര്യങ്ങൾ മനസിലാക്കാൻ നിങ്ങൾ വേണ്ടത്ര സമയം ചെലവഴിക്കണമെന്ന് ഞാൻ കരുതുന്നു ഇതിനെ പബ്ലിഷ് സബ്സ്ക്രൈബ് എന്ന് വിളിക്കുന്നു ഇത് ഈ മുഴുവൻ പ്രോട്ടോക്കോളിനെക്കുറിച്ചും സംസാരിക്കുന്നു ഇത് തീർച്ചയായും ക്ലയന്റ് സെർവർ ആണ് ഒരു പ്രശ്നവുമില്ല ചെറിയ ഐഒടി നെറ്റ്വർക്കുകൾക്ക് വളരെ നന്നായി യോജിക്കുമെന്ന് ഞാൻ പറയും അതിനാൽ IoT എന്നതിനായുള്ള ഡിസൈൻ എന്നാൽ ചോയിസുകൾ എന്നാണ് അർത്ഥമാക്കുന്നത് ഞാൻ MQTT ഉപയോഗിക്കണോ അതോ മറ്റെന്തെങ്കിലും ഉപയോഗിക്കണോ ചില ഘട്ടങ്ങളിൽ നിങ്ങൾ ഈ ഘട്ടത്തിലേക്ക് വരും ശരി നിങ്ങൾ മികച്ച വിധികർത്താവാണ് ഞാൻ പറയുന്ന ആ പ്രസിദ്ധമായ വാക്ക് നിങ്ങൾ നോക്കണം "ഇത് പലതിനെയും ആശ്രയിച്ചിരിക്കുന്നു" നിങ്ങൾ ആണ് യഥാർത്ഥത്തിൽ യാഥാർത്ഥ്യം വിശകലനം ചെയ്യേണ്ടത് അത് MQTT ആയിരിക്കണമോ അതോ മറ്റൊരു IoT പ്രോട്ടോക്കോൾ ആയിരിക്കണമോ എന്ന് തിരഞ്ഞെടുക്കുന്നതിനുള്ള ഒരു ഇൻപുട്ടായി നിങ്ങൾ ഉപയോഗിക്കുകയും ചെയ്യണം പെട്ടെന്ന് ഞാൻ സംഗ്രഹിക്കാം മറ്റൊന്ന് കോ ആപ്പ് എന്ന് വിളിക്കപ്പെടുന്ന കോൺസ്ട്രയ്ന്റ് ആപ്ലിക്കേഷൻ പ്രോട്ടോക്കോൾ ആണ് എന്നാൽ ചെറിയ ഐഒടി നെറ്റ്വർക്കിന് ഇത് അനുയോജ്യമാണെങ്കിൽ ഇത് സിസ്റ്റത്തിൽ ഉപയോഗിക്കുമെന്ന് എനിക്ക് നിങ്ങളോട് പറയാൻ കഴിയും നിങ്ങൾക്ക് എന്തെങ്കിലും വേഗത്തിൽ ആരംഭിക്കാൻ ആഗ്രഹമുണ്ട് മാത്രമല്ല നിങ്ങളുടെ സിസ്റ്റം സമഗ്രമായി പരിശോധിക്കാൻ നിങ്ങൾ താൽപ്പര്യപ്പെടുന്നു ഇപ്പോൾ ഒരു സ്കെയിലിംഗും നോക്കാൻ നിങ്ങൾ താൽപ്പര്യപ്പെടുന്നില്ല പബ്ലിഷ് സബ്സ്ക്രൈബ് ഫ്രെയിംവർക്ക് ആർക്കിടെക്ചർ നിങ്ങൾക്ക് ഉപയോഗിക്കാം ദയവായി MQTT ഉപയോഗിക്കുക മെസ്സേജ് ക്യൂ ടെലിമെട്രി ട്രാൻസ്ഫർ ഇതിന്റെ വിശദാംശങ്ങളിലേക്ക് കടക്കാം വിവര ശൃംഖലയുമായി സംയോജിപ്പിക്കേണ്ടതിന്റെ ഈ പ്രധാന ആവശ്യകതയെക്കുറിച്ച് നമ്മൾ ചർച്ച ചെയ്യുന്നു വ്യക്തമായും ഈ അടിസ്ഥാന ആവശ്യകതകളെല്ലാം നമ്മൾ നിരത്തി അതിനാൽ എവിടെയെങ്കിലും ഇത് സംയോജിപ്പിക്കണം അടിസ്ഥാനപരമായി നിങ്ങൾ ഈ ആർക്കിറ്റെക്റ്റർ ൽ പ്രവേശിക്കുന്നതിന് മുമ്പ് ഇന്റഗ്രേഷൻ ആർക്കിടെക്ചറിനുള്ള ഓപ്ഷനുകൾ എന്തൊക്കെയാണ് അടിസ്ഥാനപരമായി നിങ്ങൾക്ക് സ്വതന്ത്ര ആപ്ലിക്കേഷനുകൾ ഉണ്ടെന്ന് പറയും നിങ്ങൾക്ക് ഇന്റഗ്രേഷൻ ആർക്കിടെക്ചർ വേണം നിങ്ങൾക്ക് ഒരു ആർക്കിടെക്ചർ ആവശ്യമാണ് ഇതാണ് നിങ്ങളുടെ ലക്ഷ്യം നിങ്ങൾക്ക് സെൻസർ നോഡുകൾ ഉണ്ട് ഓരോന്നും സ്വതന്ത്രമായി എന്തെങ്കിലും നിരീക്ഷിക്കുന്നു അത് സ്വയം പ്രവർത്തിക്കുന്നു ഇത് ഒരു പ്രശ്നവുമില്ലെന്ന് ചിന്തിക്കാൻ കഴിയും എന്നാൽ നിങ്ങൾക്ക് ഒരു ഇന്റഗ്രേഷൻ ആർക്കിടെക്ചർ വേണം കൂട്ടായ ഇന്റലിജൻസ് കൂട്ടായ ഇന്റലിജൻസിന് ഈ MQTT യോജിക്കും എന്ന് നമ്മൾ വിശ്വസിക്കുന്നു അത് ചെയ്യുന്നതിന് മുമ്പ് ഈ രീതിയിൽ നോക്കുക ഈ സംയോജനത്തിലേക്ക് പ്രവേശിക്കാൻ നിങ്ങൾക്ക് അറിയാവുന്ന വ്യത്യസ്ത മാർഗങ്ങളുണ്ട് ഒന്ന് ഒരു ബസ് അധിഷ്ഠിത ആർക്കിടെക്ചർ ആണ് നിങ്ങൾ 1 മുതൽ n നോഡുകൾ ഉള്ള ഒരു ബസ് ഉപയോഗിക്കുന്നു ഈ നെറ്റ്വർക്ക് ബസ് ഉപയോഗിച്ച് പരസ്പരം ആശയവിനിമയം നടത്താൻ ഡാറ്റ അയയ്ക്കാൻ ഈ 1 മുതൽ n നോഡുകൾക്ക് അറിയാം അതൊരു സാധാരണ ബസ്സാണ് ഇത് ഒരു വഴിയാണ് രണ്ടാമത്തെ വഴി നിങ്ങൾ ഒരു മധ്യ എന്റിറ്റി ഉപയോഗിച്ച് ചെയ്യുക എന്നതാണ് നിങ്ങൾക്ക് ഇതിലേക്ക് കണക്റ്റുചെയ്തിരിക്കുന്ന എന്റിറ്റികളുണ്ട് ഇത് 1 പറയും ഇത് 10 ഇത് ഒടുവിൽ n അതിനാൽ അതേ n ഇപ്പോൾ ഈ മധ്യ എന്റിറ്റിയിലൂടെ പോകുന്നു ഈ മധ്യ എന്റിറ്റിയെ യഥാർത്ഥത്തിൽ ബ്രോക്കർ എന്ന് വിളിക്കുന്നു ഇപ്പോൾ നിങ്ങൾക്ക് പബ്ലിഷ് ചെയ്യുന്ന നോഡുകളും സബ്സ്ക്രൈബുചെയ്യുന്ന നോഡുകളുമുണ്ട് ഈ നോഡുകൾ പബ്ലിഷ് ചെയ്യുന്നു നോഡുകൾ സബ്സ്ക്രൈബുചെയ്യുന്നു ഒപ്പം ഡാറ്റ നേടുകയും ചെയ്യുന്നു അതിനാലാണ് ഇതിനെ പബ്ലിഷ് സബ്സ്ക്രൈബ് ആർക്കിടെക്ചർ എന്ന് വിളിക്കുന്നത് ഇതിനെ ബ്രോക്കർ എന്ന് വിളിക്കുന്നു ഇവരാണ് ക്ലയന്റുകൾ ഇതൊരു ക്ലയന്റ് ക്ലയന്റ് ഒന്ന് ഇതുപോലെ തുടരുന്നു അതിനാൽ ഒരു ക്ലയന്റ് നു പബ്ലിഷ് ചെയ്യാനും സബ്സ്ക്രൈബുചെയ്യാനും കഴിയുമോ പോലുള്ള ചോദ്യങ്ങൾ നിങ്ങൾക്ക് ചോദിക്കാം അതെ അവക്ക് പബ്ലിഷ് ചെയ്യാനും അവക്ക് സബ്സ്ക്രൈബുചെയ്യാനും കഴിയും അവർ മറ്റൊരു വിഷയത്തിലേക്ക് സബ്സ്ക്രൈബുചെയ്യാം ആരാണ് വിഷയം ആരംഭിക്കുന്നത് ആരാണ് വിഷയം കൈവശമുള്ളത് മുതലായവ ബ്രോക്കറിൽ സൂക്ഷിക്കുന്നു ബ്രോക്കർ ഒരു റൂട്ട് കീ ആണ് അതായത് റൂട്ട് പോലെയാണ് താപനില ആവശ്യമില്ലാത്ത ഒരു നോഡ് n ഉണ്ടെങ്കിൽ അത് സബ്സ്ക്രൈബുചെയ്യരുത് അതിനാൽ ഇതിലേക്ക് ഒരു സബ്സ്ക്രിപ്ഷനും ഇല്ല എന്നാൽ ഈ നോഡ് മർദ്ദത്തെ പറ്റിയുള്ള വിവരം അയയ്ക്കുന്നതു ആണെങ്കിൽ അത് സബ്സ്ക്രൈബ് ചെയ്യാം അതിനാൽ മുൻകൂട്ടി ഉറപ്പുള്ള വിവരങ്ങൾ ഈ ദിശയിലെ മർദ്ദ ഡാറ്റയിലേക്കാണ് പോകുന്നത് പക്ഷേ താപനില ഡാറ്റ ഒരേ നോഡിൽ നിന്നാണെങ്കിലും പോകില്ല അതിനാൽ വളരെ ബുദ്ധിപരമായി നിങ്ങൾ വിഷയത്തെ അടിസ്ഥാനമാക്കി ഡാറ്റ റൂട്ട് ചെയ്യുന്നു അതിനാൽ വിഷയം ഒരു റൂട്ട് പോലെയാണ് അതിനാൽ വിഷയം വളരെ ലളിതമായി ഞാൻ പറയും ഇത് റൂട്ടിംഗ് കീ ആണ് അതിനാൽ ഈ MQTT യഥാർത്ഥത്തിൽ ഇത് ഉപയോഗിക്കുന്നു കൂട്ടായ ഇന്റലിജൻസിനായി സ്വതന്ത്ര ആപ്ലിക്കേഷൻ ഇന്റഗ്രേഷൻ ആർക്കിടെക്ചറിൽ ആദ്യത്തേത് ബസ് ആണ് രണ്ടാമത്തേത് പബ്ലിഷ് സബ്സ്ക്രൈബ് ആർക്കിടെക്ചർ ആണ് മൂന്നാമത്തേത് സ്ട്രൈറ്റ് ഫോർവേഡ് നോഡുകളാണ് ഞങ്ങൾ ഇതിനെ ചതുരാകൃതിയിലുള്ള ബ്ലോക്ക് എന്നാണ് സൂചിപ്പിക്കുന്നത് 1 10 ഇത് n ആണ് നിങ്ങൾ ഇവിടെ നിന്ന് ഒന്ന് വരെ കണക്ഷനുകൾ സ്ഥാപിക്കുന്നു ഇത് ആർക്കാണ് അയയ്ക്കുന്നതെന്ന് ഈ നോഡിന് അറിയാം അവ നന്നായി വിച്ഛേദിക്കപ്പെട്ടിട്ടുണ്ട് ഇത് ഒരു പ്രത്യേക സമയത്ത് ഈ നോഡ് പ്രസിദ്ധീകരിച്ചേക്കാം എന്നാൽ ഈ നോഡ് മറ്റൊരു സമയത്ത് ഇത് എടുത്തേക്കാം കാരണം ചില പരിഗണനകൾ കാരണം ഈ നോഡ് വന്നില്ല അതിനാൽ നിങ്ങൾക്ക് മറ്റ് ചില സമയങ്ങളിൽ എടുക്കാം അവ പരസ്പരം ബന്ധിപ്പിച്ചിട്ടില്ലെന്നത് ഒരു സൂചകമാണെന്ന് വ്യക്തമാണ് ബസ് അധിഷ്ഠിത ആർക്കിടെക്ചറിൽ കണക്റ്റുചെയ്യുന്നതിനോ വിച്ഛേദിക്കുന്നതിനോ സമാനമായ എന്തെങ്കിലും നിങ്ങൾക്ക് ഉണ്ടായിരിക്കാം ഞങ്ങൾ ബസ്സിലെ ഡാറ്റ എടുക്കാൻ ആഗ്രഹിക്കുന്നു അതിനാൽ ഈ ബസ് അധിഷ്ഠിതവും ബ്രോക്കർ അധിഷ്ഠിതവും തമ്മിലുള്ള പ്രധാന വ്യത്യാസം ഒരു കേന്ദ്ര എന്റിറ്റി ഇല്ല എന്നതാണ് ഡാറ്റ ബസ്സിൽ തന്നെ ലഭ്യമാണെന്ന് നമുക്ക് കാണാൻ കഴിയും അതിനാൽ കൂട്ടായ ഇന്റലിജൻസിനായുള്ള ഇന്റഗ്രേഷൻ ആർക്കിടെക്ചറിന്റെ ഈ ലക്ഷ്യം കൈവരിക്കാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നുവെങ്കിൽ ചെറിയ നെറ്റ്വർക്കുകൾക്കായി ക്ലയന്റിനെ സബ്സ്ക്രൈബറുമായും പബ്ലിഷറുമായി ബന്ധിപ്പിക്കാതെ എന്നാൽ ഒരു ബ്രോക്കറിലൂടെ കടന്നുപോകുന്നത് ചെറിയ നെറ്റ്വർക്കുകൾക്ക് നന്നായി പ്രവർത്തിക്കുമെന്ന് തോന്നുന്നു നമുക്ക് ഈ MQTT യുടെ ഒരു ഡെമോ കാണാം തുടർന്ന് തിരികെ വന്ന് MQTT നെക്കുറിച്ചുള്ള ചർച്ച പൂർത്തിയാക്കുക അതിനാൽ നിങ്ങൾ ഓർക്കുന്നുവെങ്കിൽ എല്ലാ അടിസ്ഥാന ആവശ്യകതകളും ഞാൻ നിങ്ങളോട് പറയുകയായിരുന്നു ഞങ്ങൾ ഡെമോ ചെയ്യാൻ ആഗ്രഹിക്കുന്ന ഒരു ഐഒടി പ്രോട്ടോക്കോളിന്റെ ഒരു ഉദാഹരണം എടുത്തു ഇത് ഞാൻ തുടക്കത്തിൽ പറഞ്ഞ ക്യാമറ ഉദാഹരണവുമായി ബന്ധപ്പെട്ടതാണ് ഇപ്പോൾ ഞങ്ങൾ ചെയ്യുന്നത് വളരെ ലളിതമായ ഒരു ഡെമോ ഉപയോഗിച്ച് എല്ലാം ബന്ധിപ്പിക്കാൻ ശ്രമിക്കും ഈ പബ്ലിഷ് സബ്സ്ക്രൈബ് തരത്തിലുള്ള ആശയവിനിമയ മോഡലിന്റെ ശക്തി കാണിക്കും അതിന് കീഴിൽ IoT ഉപകരണങ്ങൾക്ക് യഥാർത്ഥത്തിൽ പ്രയോജനം ലഭിക്കും ആദ്യം ഒരു പിഐആർ സെൻസർ എന്ന സെൻസറുള്ള 1 ഐഒടി നോഡ് യഥാർത്ഥത്തിൽ ഒരു ചലനം കണ്ടെത്തുന്നുണ്ടോ അതായത് ഒരു മനുഷ്യൻ പ്രവേശിച്ചു അല്ലെങ്കിൽ ഒരു മൃഗം കടന്നുപോയോ അല്ലെങ്കിൽ സെൻസർ യഥാർത്ഥത്തിൽ എന്തെങ്കിലും കണ്ടെത്തിയോ എന്നത് അതിനാൽ ഞാൻ സൂചിപ്പിച്ചതുപോലെ MQTT ലെ വിഷയം ഒരു റൂട്ടിംഗ് കീ പോലെയുള്ള പേരിലാണ് ഇതിനെ വിളിക്കുക നമുക്ക് ഈ വിഷയത്തിന് ഒരു പേര് ചലനമെന്ന നിലയിൽ മോഷൻ എന്ന പേര് നൽകാം ഇപ്പോൾ ഈ വിഷയത്തിൽ അടങ്ങിയിരിക്കേണ്ട പേ ലോഡ് പുറത്തുപോകുന്ന സന്ദേശം ശരിയായി കണ്ടെത്തിയെന്ന് പറയണം അതിനാൽ ആദ്യം ഈ ചലനം എങ്ങനെ കണ്ടെത്താമെന്ന് നമുക്ക് നോക്കാം തുടർന്ന് ഈ സന്ദേശം എങ്ങനെ ശരിയായി പ്രസിദ്ധീകരിക്കാമെന്ന് നമുക്ക് കാണാൻ കഴിയും അത് ബ്രോക്കറിലേക്ക് പോകേണ്ട സ്ഥലത്തേക്ക് പോകണം എനിക്ക് ഒരു ഫിസിക്കൽ ബ്രോക്കർ ഇല്ല എനിക്ക് യഥാർത്ഥത്തിൽ ക്ളൌഡിൽ ഇരിക്കുന്ന ബ്രോക്കർ ഉണ്ട് അതിനാൽ ഒരു ക്ളൌഡ് ഉണ്ടെന്ന് ഞങ്ങൾ അനുമാനിക്കുകയും ബ്രോക്കറിലേക്ക് പോകുമ്പോൾ ഒരു ചെറിയ ത്രികോണം കാണിക്കുകയും ചെയ്യും കൂടാതെ ഈ യഥാർത്ഥ കോൺഫിഗറേഷനുകളെക്കുറിച്ച് വിശദമായി ചർച്ചചെയ്യുകയും മൊബൈൽ ഫോണുകൾ ഉപയോഗിച്ച് നിങ്ങൾക്ക് ഇത് എങ്ങനെ ചെയ്യാമെന്നതിനെക്കുറിച്ചും ചർച്ച ചെയ്യും ഒരു ചലനം കണ്ടെത്തി എന്ന് പറയുന്ന മറ്റൊരു സെൻസറിന് അത് ഇപ്പോൾ ലഭിക്കണം ചലനം കണ്ടെത്തിയാൽ നിങ്ങൾ എന്തുചെയ്യണം ഒരു വാതിൽ പ്രവേശന സംവിധാനമാണെങ്കിൽ റെക്കോർഡിംഗ് ആരംഭിക്കാനോ പ്രാമാണീകരണ ആവശ്യങ്ങൾക്കായി ഉപയോഗിക്കാനോ ആഗ്രഹിക്കുന്ന വ്യക്തിയുടെ മുഖം പിടിക്കാൻ ക്യാമറ സ്വിച്ച് ചെയ്യാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നു അത് മറ്റൊരു സെനർ നോഡ് ആയിരിക്കണം മറ്റ് സെൻസർ നോഡിന് ഒരു ചലനം കണ്ടെത്തിയിട്ടുണ്ടോ എന്ന് അറിയാൻ മാത്രമേ താൽപ്പര്യമുള്ളൂ അത് സ്വന്തം പ്രോസസ്സിംഗ് നടത്തും ഞങ്ങൾ സൂചിപ്പിച്ച കൂട്ടായ ബുദ്ധിയുടെ യഥാർത്ഥ ആശയത്തിലേക്ക് മടങ്ങുക അതിനാൽ ഈ നോഡുകൾ ഒരുമിച്ച് ഞങ്ങളുടെ ആപ്ലിക്കേഷന് ബുദ്ധിശക്തിയുടെ മികച്ച തലമാണ് നൽകുന്നത് അതിനാൽ ഇപ്പോൾ ഞങ്ങൾ ചെയ്യുന്നത് ഒരു ഷിഫ്റ്റാണ് നമുക്ക് ഇപ്പോൾ മാധുരി പ്രദർശിപ്പിക്കുന്ന ഉപകരണങ്ങളിലും ലളിതമായ ബോർഡിലും ശ്രദ്ധ കേന്ദ്രീകരിക്കാം അതിനാൽ ഇവിടെ ചെയ്തത് അവൾ ഒരു പിഐആർ സിസ്റ്റം സജ്ജമാക്കി ഈ പിആർ സെൻസറിൽ നിന്നും വളരെ ലളിതമായ അനലോഗ് സിഗ്നലാണ് നിങ്ങൾക്ക് കാണാൻ കഴിയുക കൂടാതെ ചലനമുണ്ടെങ്കിൽ അവൾക്ക് ഈ സിഗ്നൽ പിടിച്ചെടുക്കാൻ കഴിയുമെങ്കിൽ തത്സമയം നിങ്ങളെ കാണിക്കാൻ കഴിയുമോ എന്ന് നോക്കാം ഈ പിഐആർ സെൻസറിന് മുന്നിൽ കൈ നീട്ടാൻ പോകുന്നു സെൻസർ എവിടെയാണെന്ന് നിങ്ങളെ കാണിക്കാൻ പോകുന്നു തുടർന്ന് അതിന് മുന്നിൽ കൈവീശാൻ പോകുന്നു ഓസിലോസ്കോപ്പിൽ എന്താണ് സംഭവിക്കുന്നതെന്ന് നോക്കാം അതിനാൽ പിടിച്ചെടുത്ത തരംഗ രൂപം പുനർ സജ്ജമാക്കി ഇപ്പോൾ പിഐആർ സെൻസർ എവിടെയാണ് അതാണ് പിഐആർ നിങ്ങൾക്ക് ഒരു പെൻസിൽ അല്ലെങ്കിൽ പിഐആർ സിസ്റ്റത്തിലേക്ക് ചൂണ്ടിക്കാണിക്കാൻ കഴിയുന്ന എന്തെങ്കിലും ഉപയോഗിക്കാമോ ഇപ്പോൾ അത് നല്ലതാണ് അതാണ് പിഐആർ സെൻസർ പൊട്ടൻഷ്യോമീറ്ററിന്റെ നേട്ടം ക്രമീകരിക്കുന്നതിനാണ് നീല പൊട്ടൻഷ്യോമീറ്ററുകൾ വിദ്യാർത്ഥി അതെ പിഐആർ ആംപ്ലിഫയറിന്റെ ഗെയിൻ വിദ്യാർത്ഥി അതെ അതിനാൽ നിങ്ങൾക്ക് ഇവിടെയുള്ള രണ്ട് സ്റ്റേജ് ആംപ്ലിഫയറാണ് തുടർന്ന് രണ്ട് സ്റ്റേജ് ഗെയിനും ക്രമീകരിക്കുന്നു വിദ്യാർത്ഥി അതെ നിങ്ങൾ ഇത് എങ്ങനെ ശക്തിയോടെ പവർ ചെയ്യുന്നു വിദ്യാർത്ഥി 9 വോൾട്ട് 9 വോൾട്ട് ബാറ്ററി സെൻസറിനായുള്ള നിലവിലെ ഉപഭോഗം വിദ്യാർത്ഥി ഇത് ഏകദേശം 1 മില്ലി ആമ്പിയർ ആണ് ഏകദേശം 1 മില്ലി ആമ്പിയർ വിദ്യാർത്ഥി സമയം കാണുക 4540 ഇലക്ട്രോണിക്സ് ഉൾപ്പെടെ ഇലക്ട്രോണിക് ഉൾപ്പെടെ അതിനാൽ നിങ്ങൾക്ക് രണ്ട് ഘട്ട ഓപ് ആം സർക്യൂട്ട് ഉണ്ട് വിദ്യാർത്ഥി അതെ എന്നിട്ട് നിങ്ങൾക്ക് ആ സിഗ്നൽ ലഭിക്കുന്നു നിങ്ങൾക്ക് ഞങ്ങൾക്ക് ഡെമോ നൽകാമോ വിദ്യാർത്ഥി അതെ പിഐആർ സിസ്റ്റം വളരെ മികച്ചതാണ് അതിനാൽ വീണ്ടും കൈ വീശാമോ അങ്ങനെ നിർത്തു വിദ്യാർത്ഥി അതെ ഇവിടെ നിന്ന് ഒരു വഴി ഉണ്ടായിരുന്നു ഒരുപക്ഷേ ടൈം ബേസ് കുറയ്ക്കാം അതിനാൽ ഇതിന് വേഗത്തിൽ പോകാൻ കഴിയും അതെ ഇതിലും താഴ്ന്നതാണ് വിദ്യാർത്ഥി ഇതിലും താഴ്ന്നത് ഇല്ല അതിനാൽ നിങ്ങൾക്ക് ലഭിക്കും നമുക്ക് ഇപ്പോൾ നോക്കാം അതിനാൽ ഇത് വളരെ ചെറിയ സിഗ്നലാണ് കൂടാതെ വോൾട്ടേജ് അളവ് വളരെ കുറവാണ് അതിനാൽ പിആർ സെൻസറിലെ തന്ത്രം പ്രധാനമായും സെൻസറുമായി വളരെയധികം ബന്ധപ്പെടുന്നില്ല പക്ഷേ ഒപ്റ്റിക്സ് അതിനൊപ്പം പോകുന്നു അതിനാൽ മാധുരി ഞങ്ങൾ ഇപ്പോൾ മൂന്ന് വ്യത്യസ്ത തരം ലെൻസുകൾ ഡെമോ ചെയ്യും അത് ഏതെങ്കിലും പിഐആർ സംവിധാനത്തോടൊപ്പം ഉണ്ടായിരിക്കണം അവളുടെ കയ്യിൽ ആദ്യം ഉള്ളത് ഒരു ഗോൾഫ് ബോൾ ലെൻസാണ് ഇത് തിരിച്ചറിയാൻ അനുവദിക്കുന്ന ലെൻസാണ് ഞങ്ങൾ അത് എങ്ങനെ മുകളിൽ സ്ഥാപിക്കും നിങ്ങൾ ഇവിടെ ലെൻസ് സിസ്റ്റത്തിന് മുകളിൽ വയ്ക്കുക തുടർന്ന് സംഭവിക്കുന്ന ഏത് ചലനവും ഏകദേശം 120 ഡിഗ്രി കോണിൽ കണ്ടെത്താൻ കഴിയും അതിനാൽ ഇത് ഇപ്പോൾ നിങ്ങൾ ആഗ്രഹിക്കുന്നുവെന്ന് കരുതുന്ന ഒരു തരം ലെൻസാണ് അത്തരമൊരു ഉയർന്ന ബാൻഡ്വിഡ്ത്ത് അല്ലെങ്കിൽ ഉയർന്ന ബീം വിഡ്ത് ആവശ്യമില്ലെന്ന് നിങ്ങൾക്കറിയാം നിങ്ങൾക്ക് യഥാർത്ഥത്തിൽ ഒരു സ്പോട്ട് ലെൻസിനായി പോകാം മാധുരിയുടെ കയ്യിലുള്ളത് ഒരു സ്പോട്ട് ലെൻസാണ് അത് അതിന്റെ ഫോക്കൽ ലെങ്ങ്തിൽ നിങ്ങൾ യഥാർത്ഥത്തിൽ പിടിക്കണം വിദ്യാർത്ഥി അതെ അതിന്റെ ഫോക്കൽ ലെങ്ത് വഴി നമുക്ക് ഫോക്കസ് ചെയ്യാനും ഒരു സിഗ്നൽ നൽകാനും കഴിയും അതിനാൽ ഇത് ബീം വിഡ്ത് കുറയ്ക്കുന്നതിന് തുല്യമാണ് ഇപ്പോൾ ഭൂരിഭാഗം ആളുകളും ഉപയോഗിക്കുന്ന മറ്റൊരു തരം ലെൻസിനെ മൾട്ടി ലെൻസ് എന്ന് വിളിക്കുന്നു നിങ്ങൾക്ക് ഇവിടെ കാണാൻ കഴിയുന്നത് ഇതിന്റെ ഒരു ഹോൾഡ് ആണ് ഇവിടെയുള്ള വരികളുടെ എണ്ണം ഓരോ വരിയും ഒരു ഡിറ്റക്ഷൻ പോലെയാണെന്ന് നിങ്ങൾക്ക് കാണാൻ കഴിയും അതിനാൽ പിഐആർ ലെൻസിനെതിരെ ഇത് മൌണ്ട് ചെയ്യാൻ അവൾക്ക് കഴിയുമെങ്കിൽ അവൾക്ക് അത് അവിടെ പിടിക്കാൻ കഴിയും ഒരു മനുഷ്യൻ യഥാർത്ഥത്തിൽ നടക്കുകയാണെങ്കിൽ ഇവിടെ ദൃശ്യമാകുന്ന ഒന്നിലധികം അനലോഗ് സിഗ്നലുകൾ ഉണ്ടാകും അത് നിങ്ങൾക്ക് നിരവധി കണ്ടെത്തലുകൾ നൽകും നിങ്ങൾക്ക് യഥാർത്ഥത്തിൽ ഒന്നിലധികം കണ്ടെത്തലുകൾ ലഭിക്കും അത് മനുഷ്യർ മുറിച്ചുകടക്കുമ്പോൾ അല്ലെങ്കിൽ ഒരു ശരീരം ഇടത്തുനിന്നും വലത്തോട്ടോ വലത്തു നിന്ന് ഇടത്തോട്ടോ നീങ്ങുമ്പോൾ ഒരു നല്ല സൈൻ തരംഗം നൽകും സിഗ്നലിന്റെ ധ്രുവതയെ ആശ്രയിച്ച് നിങ്ങൾക്ക് കാണാനാകുന്നതുപോലെ ഒരു വ്യക്തി യഥാർത്ഥത്തിൽ ഇടത് വശത്ത് നിന്ന് വലതുവശത്തേക്കോ വലതുവശത്ത് നിന്ന് ഇടതുവശത്തേക്കോ കടന്നിട്ടുണ്ടോ എന്ന് കാണാനാകുമെന്ന് ഇത് തെളിയിക്കും മാത്രമല്ല പിഐആറിൽ നിന്ന് എത്ര അകലെയാണ് യഥാർത്ഥത്തിൽ കണ്ടെത്തൽ സംഭവിച്ചതെന്ന് പറയും അതിനാൽ ഇത് സെൻസറിനെക്കുറിച്ചാണ് ഈ വിവരം ഇപ്പോൾ നടക്കുന്നുവെന്ന് സങ്കൽപ്പിക്കുക ഈ ഡാറ്റ എടുത്ത് ബ്രോക്കറിലേക്ക് കൊണ്ടുപോകാൻ ആഗ്രഹിക്കുന്ന ഒരു പബ്ലിഷറിലേക്ക് ഇത് കൊടുക്കുന്നു ആൻഡ്രോയിഡ് ഫോണുകളിൽ നിങ്ങൾക്ക് എങ്ങനെ ലളിതമായ ഒരു ആപ്ലിക്കേഷൻ ഉപയോഗിക്കാൻ കഴിയും അതിലൂടെ ചലനവും പേലോഡും അടങ്ങിയ വിഷയം കണ്ടെത്തുന്ന ഒരു ഡാറ്റ യഥാർത്ഥത്തിൽ കൈമാറാൻ കഴിയും മൊബൈൽ ഫോണുകൾ ഉപയോഗിച്ച് നിങ്ങളെ കാണിക്കും അതിനാൽ ഇവിടെ ഒരു അപ്ലിക്കേഷൻ പരാമർശിക്കുന്നു വിദ്യാർത്ഥി സമയം കാണുക 4946 ഗൂഗിൾപ്ലേയിൽ നിന്ന് നിങ്ങൾക്ക് ഡൌൺലോഡ് ചെയ്യാൻ കഴിയുന്ന My MQTT ഉപയോഗിക്കാം ഈ ഇന്റർഫേസ് വളരെ ലളിതമാണെന്ന് നിങ്ങൾക്ക് കാണാൻ കഴിയും ഒരു ഡാഷ്ബോർഡ് ഉണ്ട് ഒരു സബ്സ്ക്രൈബ് ഉണ്ട് ഒരു പബ്ലിഷുമുണ്ട് ഒപ്പം സംഭരിച്ച സന്ദേശങ്ങളും നിങ്ങൾക്ക് അവിടെ കാണാനാകും കൂടാതെ നിങ്ങൾ ചെയ്യാൻ ആഗ്രഹിക്കുന്ന ഏതെങ്കിലും നിർദ്ദിഷ്ട ട്യൂണിംഗിനായി ലളിതമായ ഒരു ബട്ടൺ ഇവിടെയുണ്ട് ഈ പബ്ലിഷർ യഥാർത്ഥത്തിൽ ഒരു ബ്രോക്കറുമായി ബന്ധപ്പെടുന്നു ബ്രോക്കറുടെ പേര് ബ്രോക്കർ ഡോട്ട് ഹിവെംപ് ഡോട്ട് കോം എന്ന് വിളിക്കാം ക്ലൌഡിലുള്ള ഈ ബ്രോക്കർ ഇന്റർനെറ്റിൽ എവിടെയോ ആണ് ഇവിടെ ഫിസിക്കൽ മെഷീൻ ഇല്ല നിങ്ങൾക്ക് ഫിസിക്കൽ ഇൻഫ്രാസ്ട്രക്ചർ ആവശ്യമില്ല 3 ജി 4 ജി ഉള്ള ഫോണുകൾക്ക് ഒരു ഇൻറർനെറ്റ് കണക്ഷനുണ്ടെങ്കിൽ യഥാർത്ഥത്തിൽ ഈ സന്ദേശം പ്രക്ഷേപണം ചെയ്യാൻ കഴിയും അത് പ്രധാനമായും ഒരു ടോപ്പിക്ക് പേര് മോഷൻ എന്നും കരുതാം അതിനാൽ അഭിരാമിക്ക് അത് എങ്ങനെ ചെയ്യാനാകുമെന്ന് നോക്കാം വ്യക്തമായും ഈ ഡാറ്റയ്ക്ക് ഒരു ഉപഭോക്താവുണ്ട് അത് ചെയ്യുന്നതിന് നിങ്ങൾക്ക് മനുഷ്യരുടെ ആവശ്യമില്ല അത് കണ്ടെത്തുന്നത് സംഭവിക്കുന്നത് ഈ ഫോണിലേക്ക് ഇന്റർഫേസ് ഉള്ളതിനാലാണ് ഇത് ഒരു സെൻസർ നോഡ് പോലെയാണ് മാത്രമല്ല ആ സന്ദേശം സബ്സ്ക്രൈബർക്ക് എത്രത്തോളം യാന്ത്രികമായി വരുന്നുവെന്ന് നോക്കാം അതിനാൽ എല്ലാ കോൺഫിഗറേഷനുകളും ഇപ്പോൾ സബ്സ്ക്രൈബറിൽ ശരിയായി കാണിക്കാൻ കഴിയും അതിനാൽ ഇപ്പോൾ മാധുരിയും അഭിരാമിയും ഇവിടെയുണ്ട് മാധുരി ഒരു സബ്സ്ക്രൈബർ വേഷത്തിലാണ് ഡാറ്റ ആവശ്യമുള്ള ഒരാളാണ് അഭിരാമി ഇത് ഒരു നോഡ് പോലെയാണ് ഇത് മറ്റെ നോഡ് ഇപ്പോൾ ആദ്യപടി വിഷയത്തിന്റെ പേര് മാധുരി നൽകുമെന്നതാണ് വിഷയത്തിന്റെ പേര് ഞങ്ങൾ പറഞ്ഞതുപോലെ അത് മോഷൻ എന്നാണ് അതിനാൽ അവൾ മോഷൻ ടൈപ്പുചെയ്യുകയും അവൾ ആ വിഷയത്തിലേക്ക് സബ്സ്ക്രൈബുചെയ്യുകയും ചെയ്യും നിങ്ങൾ ഇവിടെ കാണുന്ന സന്ദേശം മോഷൻ എന്നാണ് വിദ്യാർത്ഥി അതെ ഡിറ്റക്ടർ എന്ന് വിളിക്കപ്പെടുന്ന എന്തെങ്കിലും ഉണ്ടോ ഇല്ല അതിനാൽ സംഭവിക്കാനിടയുള്ള ഏതെങ്കിലും സംഭവത്തിനായി കാത്തിരിക്കുകയാണ് വിദ്യാർത്ഥി അതെ ഇതുമായി ബന്ധിപ്പിച്ചിരിക്കുന്ന P I R സെൻസറിലൂടെ വിദ്യാർത്ഥി അതെ ഇപ്പോൾ അവൾ വിഷയത്തിന്റെ പേര് മോഷൻ എന്ന സന്ദേശം തന്നെ അയയ്ക്കാൻ പോകുന്നു വിദ്യാർത്ഥി കണ്ടെത്തി കണ്ടെത്തി അവൾ അത് പബ്ലിഷ്ചെയ്യാൻ പോവുകയാണ് ഇപ്പോൾ പബ്ലിഷേഴ്സ്നെ കാണാം അത് ഇവിടെ ഡാറ്റ പബ്ലിഷ് ചെയ്തുവെന്ന് പറയുന്നു കണ്ടെത്തിയത് ശരിയായി വരുന്നതായി കാണാനാകും ഇത് ഫിസിക്കലി ബന്ധിപ്പിച്ചിട്ടില്ല എന്നതിന്റെ വ്യക്തമായ സൂചകമാണ് അവരുടെ സന്ദേശം സ്വതന്ത്രമായി MQTT ബ്രോക്കറിലേക്ക് അയയ്ക്കുന്നു ബ്രോക്കറിന് ടോപ്പിക്ക് ഉണ്ട് ആ പ്രത്യേക വിഷയത്തിലെ എല്ലാ സബ്സ്ക്രൈബേഴ്സ് നും നൽകുന്നു ഇത് ഒരു റൂട്ടിംഗ് പോലെയാണ് അതിനാൽ ഈ മെഷീന് ഇപ്പോൾ ഡാറ്റ ലഭിച്ചു ഇപ്പോൾ ഇവിടെ നിന്ന് രസകരമായ നിരവധി കാര്യങ്ങൾ സംഭവിക്കാം ഒരു കണ്ടെത്തൽ ഉണ്ടെന്ന വിവരം ഇതിന് ലഭിച്ചു ഇത് റെക്കോർഡിംഗ് ആരംഭിക്കാനോ വാതിൽ പ്രവേശനം തുറക്കാനോ സിസ്റ്റത്തോട് ആവശ്യപ്പെടുന്ന ഒരു സന്ദേശം തിരികെ നൽകുന്നു പ്രോട്ടോക്കോളിന്റെ ശേഷിക്കുന്ന ഭാഗം അതിന്റെ മുഴുവൻ ആർക്കിടെക്ചർ ഒക്കെ പിന്നീട് ഈ കോഴ്സിൽ നമ്മൾ കാണും